നേരത്തെ നമ്മൾ കുറച്ച സംഖ്യ വിശകലനങ്ങൾ നടത്തി വിവിധ ടാസ്കുകൾ അനുഭവിച്ച ഇൻവെർഷൻസ് കണ്ടുപിടിക്കാനും അവയുടെ കാലാവധി കണ്ടുപിടിക്കാനും അത് നമ്മൾ ഡയറക്റ്റ് ഇൻവെർഷൻ കണ്ടു പിടിക്കാൻ എടുത്ത ഉദാഹരണത്തിന് സമാനം ആണ് സമാന പ്രശ്നമായി കണക്കാക്കുകയും ഇൻഹെറിറ്റൻസ് റിലേറ്റഡ് ഇൻവെർഷനും കാലാവധിയും തിരിച്ചറിയുകയും പട്ടികയുടെ രൂപത്തിൽ പ്രതിനിധീകരിക്കുകയും വേണം അവസാന പ്രഭാഷണത്തിലെ അതേ പ്രശ്നം കണക്കിലെടുത്ത് ഇൻഹെറിറ്റൻസ് റിലേറ്റഡ് ഇൻവെർഷൻ തിരിച്ചറിയാൻ നമുക്കു ശ്രമിക്കാം T1 T2 എന്നിവ മുൻഗണന കുറഞ്ഞ ടാസ്ക്കുകളിലേക്ക് ഒരു വിപരീതത്തിനും കാരണമാകില്ല കാരണം അവ ഇതിനകം തന്നെ ഉയർന്ന മുൻഗണനയുള്ളതും ഉയർന്ന മുൻഗണനയുള്ള ടാസ്ക്കുകൾ വിപരീതങ്ങൾക്ക് കാരണമാകില്ല ഇവിടെ T4 റിസോഴ്സ് R2 ഉപയോഗിക്കുന്നു T1 റിസോഴ്സിനായി കാത്തിരിക്കുന്നതിനാൽ T4 ന്റെ മുൻഗണന T1 നു തുല്യമായി വർദ്ധിപ്പിക്കുകയും ഉയർന്ന മുൻഗണനയുള്ള ജോലികൾ അതായത് T2 T3 എന്നിവയ്ക്ക് 5 യൂണിറ്റ് സമയത്തേക്ക് ഇൻഹെറിറ്റൻസ് ഇൻവെർഷൻ വിധേയമാവുകയും ചെയ്യും റിസോഴ്സ് R3 നായി T6 അത് ഉപയോഗിക്കുകയും T2 റിസോഴ്സിനായി കാത്തിരിക്കുകയും ചെയ്യുമ്പോൾ T3T4T5 എന്നിവ സിപിയു ഉപയോഗിക്കുന്നതിൽ നിന്ന് തടയും കാരണം T6 T2 ന്റെ മുൻഗണനയോടെ എക്സിക്യൂട്ട്execute ചെയ്യും അതിനാൽ T3T4T5 എന്നിവയ്ക്ക് റിസോഴ്സ് R3T2 എന്നിവ ഉപയോഗിച്ച് T6 കാരണം 8 യൂണിറ്റ് സമയത്തേക്ക് ഇൻഹെറിറ്റൻസ് റിലേറ്റഡ് ഇൻവെർഷൻ നു വിധേയമാകാംT3 നു ഇവിടെ പ്രതിനിധീകരിക്കുന്ന റിസോഴ്സ് R2 ഉപയോഗിച്ച് T4 കാരണം 5 യൂണിറ്റ് വിപരീതത്തിന് വിധേയമാക്കാം ഒരേ ഉദാഹരണ പ്രശ്നത്തിനായുള്ള അവോയ്ഡൻസ് റിലേറ്റഡ് ഇൻവെർഷൻ നായുള്ള വിശകലനം ചുവടെ ചേർക്കുന്നു T1 T2 എന്നിവ അവോയ്ഡൻസ് റിലേറ്റഡ് ഇൻവെർഷൻ നായുള്ളന് കാരണമാകില്ല കാരണം ഇവ കുറഞ്ഞ മുൻഗണനയുള്ള ജോലികളാണ് ഉയർന്ന മുൻഗണനയുള്ള ടാസ്ക്കുകൾ മുൻഗണനാ ചുമതലകൾക്ക് വിപരീതമുണ്ടാക്കില്ല മറിച്ച് ഉയർന്ന മുൻഗണനയുള്ള ടാസ്ക്കുകളിലേക്ക് വിപരീതമുണ്ടാക്കുന്ന കുറഞ്ഞ മുൻഗണനാ ടാസ്ക്കുകളാണ് ഇത് T4 ഒരു റിസോഴ്സ് R2 ടാസ്ക് T1 ന്റെ മുൻഗണനയ്ക്ക് തുല്യമായി സജ്ജമാക്കും ഈ സാഹചര്യത്തിൽ T2 ന് ആവശ്യമായ റിസോഴ്സിലേക്ക് പ്രവേശനം അനുവദിക്കില്ല അതിനാൽ ഇത് ഒരു അവോയ്ഡൻസ് റിലേറ്റഡ് ഇൻവെർഷൻ നേരിടുന്നു R2 നായുള്ള T4 ന്റെ റിസോഴ്സ് ഉപയോഗത്തിന് തുല്യമായ 5 യൂണിറ്റ് ദൈർഘ്യം ഉള്ള സമയത്തേക്ക് റിസോഴ്സ് R1 ആവശ്യപ്പെടുമ്പോൾ T1 ന് വിപരീതഫലമുണ്ടാകാം കാരണം അതിന്റെ മുൻഗണന സീലിംഗ് പ്രിയോറിറ്റി യേക്കാൾ വലുതല്ല റിസോഴ്സ് R3 നായി T6 റിസോഴ്സ് R3 ഉപയോഗിക്കുമ്പോൾ CSC T2 ന്റെ മുൻഗണനയ്ക്ക് തുല്യമായി സജ്ജീകരിച്ചിരിക്കുന്നു അങ്ങനെയാണെങ്കിൽ T4 റിസോഴ്സ് R2 ഉപയോഗിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഇത് തടയുകയും വിപരീതത്തിന് വിധേയമാകാൻ കഴിയുന്ന പരമാവധി ദൈർഘ്യം 8 യൂണിറ്റുകൾക്കാണ് അതുപോലെ തന്നെ T2 ഒരു റിസോഴ്സ് R1 ഉപയോഗിക്കാൻ അനുവദിക്കില്ല കാരണം അതിന്റെ മുൻഗണന R3 ന്റെ സീലിംഗ് പ്രിയോറിറ്റിയേക്കാൾ വലുതല്ല ഇത് ഒരു പട്ടികയുടെ രൂപത്തിൽ പ്രതിനിധീകരിക്കാം R2 T1 T2 എന്നിവ ഉപയോഗിക്കുന്ന T4 അക്കൌണ്ടിൽ റിസോഴ്സ് R3 T4 T2 എന്നിവ ഉപയോഗിച്ച് T6 ന്റെ അക്കൌണ്ടിൽ 5 യൂണിറ്റ് വിപരീതത്തിന് വിധേയമാക്കുക വിപരീതത്തിന് വിധേയമാകുമ്പോൾ T3 T 5 എന്നിവ അവോയ്ഡൻസ് റിലേറ്റഡ് ഇൻവെർഷൻ ന് വിധേയമാകില്ല കാരണം അവർ ഒരു വിഭവവും ഉപയോഗിക്കുന്നില്ല വികസിപ്പിച്ച പട്ടികകൾ എല്ലായ്പ്പോഴും ഒരു അപ്പർ ട്രയങ്കുളർ മാട്രിക്സ് ന്റെ രൂപത്തിലാണ് എല്ലാ മൂല്യങ്ങളും അപ്പർ മാട്രിക്സ് ലാണ് കാരണം മുൻഗണനാ ഉയർന്നത് കാരണം ഒരു ടാസ്കിന് വിപരീതമുണ്ടാകില്ല ഉയർന്ന മുൻഗണനയുള്ള ടാസ്ക് ഒരു റിസോഴ്സ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ കുറഞ്ഞ മുൻഗണനയുള്ള ടാസ്ക് ആവശ്യമുണ്ട് അത് വിപരീതമല്ല കുറഞ്ഞ മുൻഗണനയുള്ള ടാസ്ക് ഉപയോഗിക്കുമ്പോൾ വിപരീതങ്ങൾ സംഭവിക്കുന്നു റിസോഴ്സും ഉയർന്ന മുൻഗണനാ ചുമതലയും കാത്തിരിക്കുന്നു വിപരീതം ഒരു വിധത്തിൽ സംഭവിക്കുന്നതിനാൽ ഇത് ശരിക്കും സമമിതിയിലല്ല അതായത് മുൻഗണന കുറഞ്ഞപ്പോൾ ടാസ്ക് റിസോഴ്സ് ഉപയോഗിക്കുന്നു ഉയർന്ന മുൻഗണനയുള്ള ടാസ്ക് കാത്തിരിക്കുന്നു മറ്റ് വഴികളിലൂടെയല്ല അതിനാൽ ഇത് ഒരു അപ്പർ ട്രയങ്കുളർ മാട്രിക്സാണ് ഒരു ടാസ്ക് സംഭവിച്ചേക്കാവുന്ന വിപരീതത്തിനായുള്ള പരമാവധി ദൈർഘ്യം എല്ലാ തരത്തിലുള്ള വിപരീതങ്ങളും പരിഗണിക്കുമ്പോൾ തിരിച്ചറിയുന്നത് ചുവടെ ചേർക്കുന്നു ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു ടാസ്കി ഡയറക്റ്റ് ഇൻഹെറിറ്റൻസ് അല്ലെങ്കിൽ അവോയ്ഡൻസ് റിലേറ്റഡ് ഇൻവെർഷൻളിൽ ഒന്ന് മാത്രമേ ഏറ്റവും നന്നായി ബാധിക്കുകയുള്ളൂ അതിന് ഒന്നിലധികം വിപരീതങ്ങളും നേരിടാൻ കഴിയില്ല 3 പട്ടികകൾ വിശകലനം ചെയ്ത ശേഷം നമുക്കു പറയാം വിപരീതത്തിനു വിദേയമാകുന്ന പരമാവധി ദൈർഖ്യം എന്നത് ആ ടാസ്കിനു 3 പട്ടികയിലും ഉള്ള പരമാവധി മൂല്യം ആണ് ഒരു ടാസ്ക്കിന് വിപരീതത്തിന് വിധേയമാകാൻ കഴിയുന്ന പരമാവധി ദൈർഘ്യം അറിയാമെങ്കിലും ടാസ്ക്കുകളുടെ ഷെഡ്യൂളബിളിറ്റി അറിയാൻ ചോദ്യം ഉയരുന്നു റേറ്റ് മോണോടോണിക് ഷെഡ്യൂളറിൽ ഞങ്ങൾ വിശകലനം ചെയ്തതുപോലെ ഷെഡ്യൂളബിലിറ്റി നിർണ്ണയിക്കാൻ ലിയു ലെഹോസ്കിഫലം ഉപയോഗിച്ചു ഒപ്പം ഓരോ ജോലിക്കും എക്സിക്യൂഷൻ സമയം ഉപയോഗിക്കുകയും എല്ലാ മുൻഗണനാ ചുമതലകളും റിസോഴ്സ് ഉപയോഗിക്കുന്നതിന് ആവശ്യമായ സമയം അത്തരത്തിലുള്ള ഒരു രൂപം സമയപരിധി കാലയളവിന് തുല്യമായ ഒരു പദപ്രയോഗം ടാസ്ക്കുകൾ വിഭവങ്ങൾ പങ്കിടുമ്പോൾ ഇവിടെ മൊത്തം ബ്ലോക്കിംഗ് സമയമായ bi എന്ന പദം ആവശ്യമാണ് കൂടാതെ മുൻഗണന കുറഞ്ഞ ടാസ്ക്കുകളുടെ അക്കൌണ്ടിലെ ഒരു റിസോഴ്സുമ് bi ആണ് പ്രിയോറിറ്റി സീലിംഗ് പ്രോട്ടോക്കോൾ ഉപയോഗിക്കുമ്പോൾ 3 വ്യത്യസ്ത തരം വിപരീതങ്ങൾക്കായുള്ള 3 പട്ടികകൾ നിർണ്ണയിച്ചുകഴിഞ്ഞാൽ ആ ടാസ്കിന് അനുയോജ്യമായ ഏറ്റവും ഉയർന്ന എൻട്രി നിർണ്ണയിക്കപ്പെടുന്നു തുടർന്ന് സജ്ജീകരിച്ച ടാസ്ക്കുകൾ ഷെഡ്യൂൾ ചെയ്യാനാകുമോ എന്ന് നിർണ്ണയിക്കാൻ ആ മൂല്യം ഉപയോഗിക്കുന്നു ഡൈനാമിക് പ്രിയോറിറ്റി സിസ്റ്റങ്ങളിൽ പ്രിയോറിറ്റി സീലിംഗ് പ്രോട്ടോക്കോൾ ഉപയോഗിക്കാൻ കഴിയുമോ എന്ന ചോദ്യം ഉയരുന്നു ഉദാഹരണത്തിന് ആദ്യകാല അന്തിമകാലാവധി ആദ്യ ഷെഡ്യൂളർ ഞങ്ങൾക്ക് EDF നൊപ്പം ഒരു വിഭവ പങ്കിടൽ പ്രോട്ടോക്കോൾ ഉപയോഗിക്കാമോ ഡൈനാമിക് പ്രിയോറിറ്റി സംവിധാനങ്ങളിൽ മുൻഗണനകൾ ടാസ്കുകളുടെ കാലത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും മാത്രമല്ല സമയപരിധി എത്രത്തോളം അടുക്കുന്നു എന്നതിനെ ആശ്രയിച്ച് മുൻഗണന വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു റിസോഴ്സ് ഷെയറിംഗിനായി പരിഗണിക്കുന്ന പ്രോട്ടോക്കോളുകൾ നിരീക്ഷിക്കുകയും ആ റിസോഴ്സ് ഉപയോഗിക്കുന്ന ടാസ്ക്കുകളുടെ മുൻഗണനകളെ അടിസ്ഥാനമാക്കി സീലിംഗ് പ്രിയോറിറ്റി നൽകുകയും ചെയ്യുന്നുവെങ്കിൽ ടാസ്ക്കുകളുടെ മുൻഗണനകൾ മാറിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ സീലിംഗ് പ്രിയോറിറ്റികൾ വീണ്ടും കംപ്യൂട്ട് ചെയ്യുന്നത് തുടരേണ്ടതുണ്ട് ഇവിടെ ഓരോ തവണയും ഒരു ടാസ്ക്കിന്റെ മുൻഗണന മാറുകയും വിഭവങ്ങളുമായി ബന്ധപ്പെട്ട നിലവിലെ സിസ്റ്റം പരിധി മാറ്റുകയും വേണം ഇത് വളരെയധികം ഓവർഹെഡ് ആണ് കാരണം നിരവധി സംഭവങ്ങളും ടാസ്ക്കുകളുടെ മുൻഗണനകളും ഇടയ്ക്കിടെ മാറുന്നു ഓരോ തവണയും ഉറവിടങ്ങളുമായി ബന്ധപ്പെടുത്തിയിരിക്കുന്ന നിലവിലെ സിസ്റ്റം പരിധിയിലേക്ക് ഇത് ചെയ്യേണ്ടതുണ്ട് ഇത് മാറ്റേണ്ടതുണ്ട് അതിനാൽ ഒരാൾ ഡൈനാമിക് പ്രിയോറിറ്റി ഷെഡ്യൂളിംഗ് അൽഗോരിതം ഉപയോഗിക്കുകയാണെങ്കിൽ അത്തരം സാഹചര്യങ്ങളിൽ ഏതെങ്കിലും വിഭവ പങ്കിടൽ പ്രോട്ടോക്കോൾ ഉപയോഗിക്കുന്നത് ബുദ്ധിമുട്ടാണ് അതിനാൽ ടാസ്ക്കുകൾ അനിയന്ത്രിതവും അവ പരസ്പരം വിഭവങ്ങൾ പങ്കിടുന്നതുമായ എല്ലാ തത്സമയ അപ്ലിക്കേഷനുകളും ഞങ്ങൾ വിശകലനം ചെയ്യുകയാണെങ്കിൽ അത് സ്ഥിരമായി റേറ്റു ചെയ്ത മോണോടോണിക് ഷെഡ്യൂളർ അല്ലെങ്കിൽ അതിന്റെ ചെറിയ വ്യതിയാനം ഉപയോഗിക്കുന്നു ഈ 3 പ്രോട്ടോക്കോളുകളും താരതമ്യപ്പെടുത്തേണ്ടതാണ് കാരണം എല്ലാ 3 പ്രോട്ടോക്കോളുകളും ചില ആപ്ലിക്കേഷനുകളിലോ മറ്റ് ഗുണങ്ങളിലോ ഉപയോഗിക്കുന്നു പ്രിയോറിറ്റി ഇൻഹെറിറ്റൻസ് പ്രോട്ടോക്കോൾ ആയിരുന്നു ഏറ്റവും ലളിതമായ പ്രോട്ടോക്കോൾ വളരെ ചെറിയ എംബഡഡ് സിസ്റ്റമുള്ളതും വളരെ ഓപ്പറേറ്റിംഗ് സിസ്റ്റവും ഉപയോഗിക്കാത്തതുമായ ഒരു ചെറിയ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുവെന്ന് കരുതുക അപ്പോൾ പ്രിയോറിറ്റി ഇൻഹെറിറ്റൻസ് ഉപയോഗത്തിലുണ്ട് ഇതിന് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ നിന്ന് വളരെ കുറച്ച് പിന്തുണ മാത്രമേ ആവശ്യമുള്ളൂ അൺ ബൌന്ദേദ് പ്രിയോറിറ്റി ഇൻവെർഷൻ മറികടക്കുന്നു പക്ഷേ അത് ചെയിൻ ബ്ലോക്കിംഗും ഡെഡ്ലോക്കുകളും നേരിടുന്നു അതിനാൽ ഒരാൾ അത് ശ്രദ്ധാപൂർവ്വം പ്രോഗ്രാം ചെയ്യേണ്ടതുണ്ട് എന്നാൽ ഇവിടെ ചെറിയ ആപ്ലിക്കേഷനുകൾക്കായി പ്രിയോറിറ്റി ഇൻഹെറിറ്റൻസ് പ്രോട്ടോക്കോൾ ഉപയോഗിക്കുന്നതിനാൽ ചെയിൻ ബ്ലോക്കിംഗും ഡെഡ്ലോക്കുകളും ഉണ്ടാകില്ല എന്നാൽ ഇവിടെ ഏറ്റവും ഉയർന്ന ലോക്കർ പ്രോട്ടോക്കോളിനെക്കുറിച്ച് ചോദ്യം ഉയരുന്നു ഇതിന് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ നിന്ന് ഒരു മിതമായ പിന്തുണ ആവശ്യമാണ് ചെയിൻ ബ്ലോക്കിംഗും പരിഹരിക്കുന്നു കൂടാതെ ഡെഡ്ലോക്ക് പ്രശ്നവും പക്ഷേ അത് ഒരു പുതിയ പ്രശ്നം അവതരിപ്പിക്കുന്നു അത് ഇന്റർമീഡിയറ്റ് മുൻഗണനാ ജോലികൾ തടയുന്നു അതായത് അവർ ഇൻഹെറിറ്റൻസ് റിലേറ്റഡ് ഇൻവെർഷൻ അനുഭവിക്കുന്നു അതാകാം ഗണ്യമായത് പ്രിയോറിറ്റി സീലിംഗ് പ്രോട്ടോക്കോൾ ബേസിക് ഇൻഹെറിറ്റൻസ് പ്രോട്ടോകോൾ ന്റെയും ഉയർന്ന ലോക്കർ പ്രോട്ടോക്കോളിന്റെയും മിക്ക പ്രശ്നങ്ങളെയും മറികടന്നു ഇത് ഡെഡ്ലോക്ക് ചെയിൻ ബ്ലോക്കിംഗ് എന്നിവയിൽ നിന്ന് മുക്തമാണ് ഏറ്റവും ഉയർന്ന ലോക്കർ പ്രോട്ടോക്കോളിന് വിപരീതമായി ഇൻഹെറിറ്റൻസ് റിലേറ്റഡ് ഇൻവെർഷൻ ഇവിടെ വളരെ കുറവാണ് ഒരു റിസോഴ്സിനായി ഉയർന്ന മുൻഗണനയുള്ള ടാസ്ക് അഭ്യർത്ഥിക്കുന്നതുവരെ ഒരു റിസോഴ്സ് നേടുന്നതിനുള്ള ഒരു ജോലിയുടെ മുൻഗണന മാറില്ല എന്നതാണ് പ്രധാന കാരണം ആ ചർച്ചയിലൂടെ നമുക്ക് തത്സമയ ടാസ്ക്കുകൾക്കിടയിൽ വിഭവ പങ്കിടലിനെക്കുറിച്ചുള്ള ചർച്ചകൾ അവസാനിപ്പിക്കാം ഇപ്പോൾ മൾട്ടിപ്രൊസസ്സർ ഷെഡ്യൂളിംഗ് ചർച്ചചെയ്യാം കാരണം ഇപ്പോൾ മൾട്ടിപ്രൊസസ്സർ സാധാരണമാണ് ചെറിയ എംബെഡഡ് ആപ്ലിക്കേഷനുകളിൽ മൾട്ടിപ്രൊസസ്സറുകൾ ഉപയോഗിക്കുന്നു മാത്രമല്ല എല്ലാ സെർവറുകൾ ഡെസ്ക്ടോപ്പുകൾ ലാപ്ടോപ്പുകൾ ഹാൻഡ്ഹെൽഡ് ഉപകരണങ്ങൾservers desktops laptops handheld devices etc മുതലായവ മൾട്ടിപ്രൊസസ്സറുകൾ ഉപയോഗിക്കുന്നു എന്നാൽ ഞങ്ങൾ മുമ്പ് നിരീക്ഷിച്ച ഫലങ്ങൾ യൂണിപ്രൊസസ്സറുകൾക്കുള്ളതാണ് മൾട്ടിപ്രൊസസ്സ സാഹചര്യത്തിനൊപ്പം ഉപയോഗത്തിനായി വിപുലീകരിക്കാൻ കഴിയുന്ന മുമ്പത്തെ ഫലങ്ങൾ ചുവടെ ചേർക്കുന്നു എന്നാൽ ഒരൊറ്റ പ്രോസസറിനേക്കാൾ ബുദ്ധിമുട്ടുള്ള പ്രശ്നമാണ് മൾട്ടിപ്രോസസർ ഷെഡ്യൂളിംഗ് തത്സമയ ടാസ്ക്കുകൾ ഷെഡ്യൂൾ ചെയ്യുന്ന മേഖലയിൽ ഗണ്യമായി പ്രവർത്തിക്കുകയും ലിയു ലെയ്ലാൻഡിന്റെ അൽഗോരിതംLiu Layland's algorithms ലിയു ലെഹോസ്കിയുടെ ഉത്ഭവം നേടുകയും ചെയ്ത ലിയുവിന്റെ വാക്കുകളിൽ നിരവധി പ്രോസസ്സറുകൾ സൌജന്യമായി ഉള്ളപ്പോൾ പോലും ഒരു ടാസ്ക്കിന് 1 പ്രോസസർ മാത്രമേ ഉപയോഗിക്കാൻ കഴിയൂ എന്നതാണ് ലളിതമായ വസ്തുത ഒന്നിലധികം പ്രോസസ്സറുകളുടെ ഷെഡ്യൂളിംഗിന് ഇത് ആശ്ചര്യകരമായ ഒരു ബുദ്ധിമുട്ട് നൽകുന്നു മൾട്ടിപ്രൊസസ്സറുകളിൽ ഷെഡ്യൂൾ ചെയ്യുന്നതിന് ബുദ്ധിമുട്ടുകളും ചില ലളിതമായ അൽഗോരിത്തും ചില ലളിതമായ തന്ത്രങ്ങളും ചുവടെ ചേർക്കുന്നു കഴിഞ്ഞ 30 വർഷത്തിനുള്ളിൽ ഇവിടെ മിക്ക ഫലങ്ങളും ലഭിച്ചു തത്സമയ മൾട്ടിപ്രൊസസ്സർ ഷെഡ്യൂളിംഗ് പ്രശ്നങ്ങൾ എൻപി ഹാർഡ് പ്രശ്നങ്ങളാണ് അതിനാൽ ലളിതമായ ഒപ്റ്റിമൽ പരിഹാരങ്ങൾ ക്രമീകരിക്കരുത് വളരെ കുറച്ച് ഫലങ്ങൾ മാത്രമേയുള്ളൂ കൂടുതലും ഹ്യൂറിസ്റ്റിക് ഉപയോഗിക്കുന്ന സമീപനങ്ങളും ലളിതമായ ടാസ്ക് മോഡലുകളും ഉപയോഗിക്കുന്നു മൾട്ടിപ്രൊസസ്സർ ഷെഡ്യൂളിംഗ് പ്രശ്നം നിരീക്ഷിക്കുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ 2 ഉപപ്രശ്നങ്ങൾ ഉണ്ട്ഒന്ന് ടാസ്ക് അസൈൻമെന്റ് പ്രശ്നവും മറ്റൊന്ന് ഷെഡ്യൂളിംഗ് പ്രശ്നവുമാണ് അസൈൻമെന്റ് പ്രശ്നത്തിൽ ഏത് പ്രോസസ്സറിൽ ഏത് ടാസ്ക് പ്രവർത്തിക്കുമെന്ന് ഞങ്ങൾ ആദ്യം തീരുമാനിക്കുന്നു തുടർന്ന് എങ്ങനെ അല്ലെങ്കിൽ ഏത് സമയത്ത് അത് പ്രവർത്തിക്കും 2 ഉപപ്രശ്നങ്ങളുണ്ട് അവ ആദ്യം ചെയ്യേണ്ടത് ഏത് പ്രോസസ്സറിൽ പ്രവർത്തിപ്പിക്കുക രണ്ടാമതായി ഷെഡ്യൂളിംഗ് അൽഗോരിതം എങ്ങനെ പ്രവർത്തിക്കും ഷെഡ്യൂളിംഗ് പ്രശ്നം ഉള്ള പ്രോസസറിന് ചുമതല നൽകുക എന്നതാണ് ടാസ്ക് അസൈൻമെന്റ് പ്രശ്നം തുടർന്ന് പ്രോസസ്സറിൽ ടാസ്ക് എങ്ങനെ ഷെഡ്യൂൾ ചെയ്യാം നിയുക്തമാക്കി പക്ഷേ മൾട്ടിപ്രൊസസ്സറുകൾക്കായുള്ള ഒപ്റ്റിമൽ ഷെഡ്യൂളറുകൾ നിലവിലില്ലെന്ന് ഞങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവയെല്ലാം എൻപി ഹാർഡ് പ്രശ്നങ്ങളാണ് പക്ഷേ യൂണിപ്രൊസസ്സറുകൾക്കും സ്റ്റാറ്റിക് മുൻഗണനാ സംവിധാനങ്ങൾക്കുമുള്ള ഒപ്റ്റിമൽ ഷെഡ്യൂളറുകൾ കണ്ടെത്തേണ്ടതുണ്ട് നമുക്കറിയാം റേറ്റ് മോനോടോണിക് സ്ചെടുലറുകൾ ഒപ്ടിമൽ സ്ചെടുലേറുകൾ ആണ് കൂടാതെ ഡൈനാമിക് മുൻഗണനാ സാഹചര്യത്തിൽ ഏർലിസ്റ്റ് ഡെഡ് ലൈൻ ഫസ്റ്റ് ഒപ്ടിമൽ സ്ചെടുലറുകൾ ആണ് പക്ഷേ EDF ലെ റേറ്റ് മോണോടോണിക് ഷെഡ്യൂളറിന്റെ സങ്കീർണ്ണതകളെക്കുറിച്ച് ചോദ്യം ഉയരുന്നു പരിഗണിക്കപ്പെട്ട നടപ്പാക്കൽ വശങ്ങൾ പരിശോധിച്ചാൽ റേറ്റ് മോണോടോണിക് ഷെഡ്യൂളർമാർക്ക് ലീനിയർ ആയിരിക്കും കാരണം നിശ്ചിത മുൻഗണനകളുണ്ടെന്ന് സജ്ജമാക്കുകയാണെങ്കിൽ നടപ്പിലാക്കലിന് O മുൻഗണനയിൽ ഷെഡ്യൂളർ പ്രവർത്തിപ്പിക്കാൻ കഴിയും ലീനിയർ എന്നത് റേറ്റ് മോനോടോണിക്കിന് ആണ് അതേസമയം ഇഡിഎഫിനായുള്ള log n റേറ്റ് മോനോടോണിക്കിന് കൂടുതൽ കാര്യക്ഷമമായ ഷെഡ്യൂളർ ഉണ്ട് അത് ചർച്ച ചെയ്തതുപോലെ O ഷെഡ്യൂളറാണ് പക്ഷേ പൊതുവായ തത്സമയ ഷെഡ്യൂളിംഗിൽ മൾട്ടിപ്രൊസസ്സർ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ട് സിസ്റ്റങ്ങൾ ഒരു എൻപി ഹാർഡ് പ്രശ്നമാണ് ചില ടാസ്ക് അസൈൻമെന്റ് അൽഗോരിതംസും ഷെഡ്യൂളിംഗ് അൽഗോരിതംസും ഇനിപ്പറയുന്നവയാണ് കാരണം മൾട്ടിപ്രൊസസ്സർ ഷെഡ്യൂളിംഗിൽ 2 കാര്യങ്ങൾ ഉൾപ്പെടുന്നു ടാസ്ക് അസൈൻമെന്റ് ടാസ്ക് ഷെഡ്യൂളിംഗ് ടാസ്ക് അസൈൻമെന്റ് അൽഗോരിതത്തിൽ ചില സ്റ്റാറ്റിക് അസൈൻമെൻറുകൾ ഉണ്ട് ടാസ്ക്കുകൾ നിർണ്ണയിച്ചുകഴിഞ്ഞാൽ ആ പ്രോസസ്സറിൽ മാത്രം പ്രവർത്തിക്കുന്ന ഒരു പ്രോസസറിലേക്ക് ടാസ്ക്കുകൾ സ്റ്റാറ്റിക്ക് ആയി നിയോഗിക്കുന്നു അതേസമയം ഒരു പ്രോസസ്സറിൽ നിന്ന് ഒരു ടാസ്ക് മൈഗ്രേറ്റ് ചെയ്യാൻ കഴിയുന്ന ഡൈനാമിക് അൽഗോരിതങ്ങളിൽ മറ്റുള്ളവയിലേക്കും അതും മറ്റൊരു സമയ ഉദാഹരണത്തിൽ അതിന് വ്യത്യസ്ത പ്രോസസ്സറുകളിൽ എക്സിക്യൂട്ട് ചെയ്യാൻ കഴിയും സ്വാഭാവികമായും സ്റ്റാറ്റിക്ക് ലളിതവും കൂടുതൽ കാര്യക്ഷമവുമാണ് കൂടാതെ യൂട്ടിലൈസേഷൻ ബാലൻസിംഗ് അൽഗോരിതം ആർഎംഎയ്ക്കുള്ള അടുത്ത ഫിറ്റ് അൽഗോരിതം EDF നായുള്ള ബിൻ പാക്കിംഗ് അൽഗോരിതം എന്നിവ ചില ഉദാഹരണങ്ങൾ ഫോക്കസ്ഡ് അഡ്രസ്സിംഗിന്റെ ഡൈനാമിക് പ്രിയോറിറ്റിയുടെ ബിഡ്ഡിംഗ് അൽഗോരിത്തിന്റെയും ബഡ്ഡി അൽഗോരിത്തിന്റെയും കുറച്ച് ഉദാഹരണങ്ങളാണ് ടാസ്ക് അസൈൻമെന്റ് അൽഗോരിതം ആയ യൂട്ടിലൈസേഷൻ ബാലൻസിംഗ് അൽഗോരിതം സംബന്ധിച്ച ചർച്ച ഇനിപ്പറയുന്നു ഇവിടെ ടാസ്ക്കുകൾ ഒരു ക്യൂവിൽ പരിപാലിക്കുകയും ഉപയോഗത്തിന്റെ വർദ്ധിച്ചുവരുന്ന ക്രമത്തിൽ ക്രമീകരിക്കുകയും ചെയ്യുന്നു ഞങ്ങൾ ക്യൂവിൽ നിന്ന് ഒരു സമയം ഒരു ടാസ്ക് എടുക്കുകയും നിലവിൽ ഏറ്റവും ഉപയോഗയോഗ്യമല്ലാത്ത പ്രോസസ്സർ ഏതെന്ന് പരിശോധിക്കുകയും ഞങ്ങൾ അത് അതിന് നൽകുകയും ചെയ്യുന്നു അതിനാൽ അടിസ്ഥാനപരമായി ഇത് അത്യാഗ്രഹിയായ അൽഗോരിതം ആണ് നിലവിൽ ഏറ്റവും കുറഞ്ഞ ഉപയോഗത്തിലുള്ള ഒന്ന് ഞങ്ങൾ പരിശോധിക്കുകയും ചുമതലപ്പെടുത്തുകയും ചെയ്യും അവസാനമായി അൽഗോരിതം അസൈൻമെന്റ് പൂർത്തിയാക്കിയ ശേഷം വ്യക്തിഗത പ്രോസസ്സറുകളുടെ ഉപയോഗം ശരാശരി ഉപയോഗത്തിന് തുല്യമല്ലെന്ന് നിരീക്ഷിക്കപ്പെടുന്നു അതായത് u i ≠ u മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഈ അത്യാഗ്രഹ അൽഗോരിതം ഉപയോഗിച്ചാലും ഉപയോഗം പൂർണ്ണമായും സന്തുലിതമല്ല ഇഡിഎഫിന്റെ സംയോജനത്തിൽ യൂട്ടിലൈസേഷൻ ബാലൻസിംഗ് അൽഗോരിതം ഉപയോഗിക്കുന്നു യൂട്ടിലൈസേഷൻ ചെയ്യുന്നത് യൂട്ടിലൈസേഷൻ ബാലൻസിംഗ് അൽഗോരിതം ആണെങ്കിലും വ്യക്തിഗത പ്രോസസർ ഷെഡ്യൂളിംഗ് ചെയ്യുന്നത് ഇഡിഎഫ് അൽഗോരിതം ആണ് റേറ്റ് മോണോടോണിക് ഷെഡ്യൂളറല്ല ഇഡിഎഫ് ഉപയോഗിക്കുന്നതിന് കാരണം ഇഡിഎഫിൽ ബാലൻസിൽ പ്രോസസറിന്റെ ഉപയോഗം 1 വരെ ആകാം അതേസമയം റേറ്റ് മോണോടോണിക് ഉപയോഗത്തിൽ പ്രോസസറിന് നൽകിയിട്ടുള്ള ടാസ്ക്കുകളുടെ എണ്ണത്തെ ആശ്രയിച്ചിരിക്കുന്നു കൂടാതെ ഞങ്ങളുടെ യൂട്ടിലൈസേഷൻ ബാലൻസിംഗ് അൽഗോരിതം പരിഗണിച്ചിട്ടില്ല അതിനാൽ യൂട്ടിലൈസേഷൻ ബാലൻസിംഗ് അൽഗോരിതംസിനൊപ്പം ഇഡിഎഫും ഉപയോഗിക്കുന്നു എല്ലാ തത്സമയ ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളുടെയും കേന്ദ്ര പ്രശ്നമായ ടാസ്ക് ഷെഡ്യൂളിംഗ് ഞങ്ങൾ ചർച്ച ചെയ്യുന്നു ഒരു തത്സമയ ഓപ്പറേറ്റിംഗ് സിസ്റ്റവും ഒരു പരമ്പരാഗത ഓപ്പറേറ്റിംഗ് സിസ്റ്റവും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയുന്നതിന് തത്സമയ മുൻഗണനാ നിലകൾക്കുള്ള പിന്തുണയാണ് തത്സമയ ആപ്ലിക്കേഷനായി ഉപയോഗിക്കാം അല്ലെങ്കിൽ പരമ്പരാഗത അല്ലാത്തവ തത്സമയ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉപയോഗിക്കാം ഒരു തത്സമയ ഷെഡ്യൂളറിൽscheduler0 പ്രത്യേകിച്ചും റേറ്റ് മോണോടോണിക് അൽഗോരിതം ഡിസൈൻ സമയത്ത് ടാസ്ക്കുകൾക്ക് മുൻഗണനകൾ നൽകിയാൽ മുൻഗണന മാറരുത് ഇതിനെ സ്റ്റാറ്റിക് മുൻഗണന നില അല്ലെങ്കിൽ തത്സമയ മുൻഗണന നില എന്നും വിളിക്കുന്നു അടുത്ത പ്രഭാഷണത്തിൽ പരമ്പരാഗത ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങൾ ടാസ്ക് മുൻഗണനകൾ മാറ്റുന്നടത്ത് ഞങ്ങൾ ചർച്ച ചെയ്യും ടാസ്ക് പ്രവർത്തിക്കുമ്പോഴെല്ലാം അതിന്റെ മുൻഗണനകൾ വീണ്ടും കണക്കാക്കുകയും പുതിയ മുൻഗണനാ മൂല്യങ്ങൾ നൽകുകയും ചെയ്യുന്നു ഇവ ശരിക്കും സ്റ്റാറ്റിക് മുൻഗണന നിലകളല്ല ഒരു തത്സമയ ഓപ്പറേറ്റിംഗ് സിസ്റ്റം സ്റ്റാറ്റിക് മുൻഗണന നിലയെ പിന്തുണയ്ക്കേണ്ടതാണ് കൂടാതെ ഡിസൈനർ ഒരു ടാസ്ക്കിന് മുൻഗണന നൽകിയാൽ അത് ആ മുൻഗണന നിലയിലേക്ക് സ്ഥിരമായി തുടരണം രണ്ടാമതായി ഓപ്പറേറ്റിംഗ് സിസ്റ്റം റേറ്റ് മോണോടോണിക് ഷെഡ്യൂളർ പോലെ ചില തത്സമയ ടാസ്ക്കുകൾ ഷെഡ്യൂളിംഗ് നയത്തെ പിന്തുണയ്ക്കണം ഈ ഷെഡ്യൂളിംഗ് നയമാണ് എല്ലാ തത്സമയ ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളുടെയും പ്രധാന ആവശ്യം റിസോഴ്സ് ഷെയറിംഗ് പ്രോട്ടോക്കോളുകൾക്കുള്ള പിന്തുണയെക്കുറിച്ച് ഇനിപ്പറയുന്നു മുൻഗണന പോലുള്ള പ്രോട്ടോക്കോളുകൾ സീലിംഗ് പ്രോട്ടോക്കോൾ അല്ലെങ്കിൽ കുറഞ്ഞത് അടിസ്ഥാന അനന്തരാവകാശ പദ്ധതിയെ പിന്തുണയ്ക്കണം നിസ്സാരമല്ലാത്ത ഏതെങ്കിലും തത്സമയ ആപ്ലിക്കേഷൻ വികസിപ്പിക്കാൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് കഴിയും കൂടാതെ ദി പ്രീസെംപ്ഷൻ സമയം മൈക്രോസെക്കൻഡുകളുടെ അല്ലെങ്കിൽ മില്ലിസെക്കൻഡുകളുടെ ക്രമത്തിലായിരിക്കണം പക്ഷേ അത് നിമിഷങ്ങൾക്കുള്ളതായിരിക്കരുത് കാരണം പല തത്സമയ അപ്ലിക്കേഷനുകളിലും പ്രതികരണ സമയം കുറച്ച് മില്ലിസെക്കൻഡുകൾ മാത്രം എന്നാൽ യുണിക്സ് പോലുള്ള പരമ്പരാഗത ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ മുൻഗണനാക്രമത്തിന്റെ സമയം ഒരു സെക്കൻഡ് ക്രമത്തിൽ ആണ് കൂടാതെ ഞങ്ങൾക്ക് ഇന്റെര്പ്ട് ലേറ്റൻസി ആവശ്യകതകളുണ്ട് ലേറ്റൻസി ചെറുത് ആയിരിക്കണം അതായത് ഇന്ററപ്റ്റ് പ്രോസസ്സ് ചെയ്യുന്ന സമയത്തേക്ക് തടസ്സം സംഭവിക്കുമ്പോൾ സമയം ചെറുതായിരിക്കുക വേണം മെമ്മറി ലോക്കിംഗ് പിന്തുണ പോലുള്ള അധിക ആവശ്യകതകളുണ്ട് ഒരിക്കൽ ഒരു ടാസ്ക് ഉപയോഗിച്ചാൽ ചില മെമ്മറി ഹാർഡ് ഡിസ്കിലേക്ക് സ്വാപ്പ് ചെയ്യാൻ പാടില്ല അത് മെമ്മറി ലോക്കു ചെയ്യണം ടൈമറുകൾക്കുള്ള പിന്തുണ കാരണം തത്സമയ അപ്ലിക്കേഷനുകളിൽ ടൈമറുകൾ വളരെ നിർണായകമാണ് ആനുകാലിക ടൈമറും അപീരിയോഡിക് ടൈമറുകളും വളരെ നിർണായകമാണ് തത്സമയ ഫയൽ സിസ്റ്റത്തെ പിന്തുണയ്ക്കണം ഉപകരണ ഇന്റർഫേസിംഗ് സൌകര്യങ്ങളോടൊപ്പം പ്രശ്നങ്ങൾ അടുത്തതായി വിശദീകരിക്കും ഈ തത്സമയ ആപ്ലിക്കേഷനുകളിൽ പലതിലും വ്യത്യസ്ത തരം പെരിഫറൽ ഉപകരണങ്ങൾ ഉപയോഗിച്ച് പ്രവർത്തിക്കേണ്ടതുണ്ട് ഞങ്ങൾ പ്രഭാഷണത്തിന്റെ അവസാന ഭാഗത്താണ് അടുത്ത പ്രഭാഷണത്തിൽ ഈ വിഷയങ്ങൾ വിശദീകരിക്കും